ഒരിക്കൽക്കൂടി സ്വാഗതം പോലീസ് ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള ഡാറ്റ എങ്ങനെ ശേഖരിക്കാമെന്നതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് സംസാരിക്കാം കൂടാതെ ചില രസകരമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് ഏത് തരത്തിലുള്ള വിശകലനം നടത്താം എന്നും നോക്കാം ഇവിടെ ഒരു ഗവേഷണ ചോദ്യം ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് അതാണ് പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും നഗരങ്ങളിലെ പോലീസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള താമസക്കാരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ ലഭിക്കുന്നതിനും ഓൺലൈൻ സോഷ്യൽ മീഡിയയ്ക്ക് പോലീസിനെ പിന്തുണയ്ക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതാണ് ലക്ഷ്യം അതിനാൽ ഫേസ്ബുക്കിൽ നിന്നും ട്വിറ്ററിൽ നിന്നും ചില ഡേറ്റ പഠിക്കാനും ഉപയോഗപ്രദമായ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലൂടെ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഈ ലക്ഷ്യത്തെ ഞാൻ പലതായി വിഭജിക്കാൻ പോകുന്നു അതായത് പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് പോലീസിനെ പിന്തുണയ്ക്കാൻ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാമോ എന്താണ് പ്രവർത്തനപരമായ വിവരങ്ങൾ എനിക്ക് തെരുവിൽ ഒരു പ്രശ്നമുണ്ട് അതാണ് റോഡിലെ ഗതാഗത പ്രശ്നങ്ങൾ തെരുവിലൊരു കുഴിപോലത്തെ ദ്വാരം ഉണ്ട് അതിനാൽ ഒരു കാർ ബ്രേക്ക് ഡൌൺ ആയി ഇവയെല്ലാം ഈ പോസ്റ്റിൽ നിന്ന് പോലീസ് ഓർഗനൈസേഷനുകൾക്ക് എടുക്കാവുന്ന പ്രവർത്തനപരമായ വിവരങ്ങളാണ് ഇത് തീരുമാനമെടുക്കുന്നതിന് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമാണ് താമസക്കാരുടെ അഭിപ്രായം ആളുകൾ പോലീസിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർ പോലീസിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് എന്നുള്ളത് പോലീസ് സംഘടനകൾക്ക് ഉപയോഗപ്രദമായ വിവരമാണ് അതിനാൽ ഞാൻ കൂടുതൽ കടന്നുപോകുന്നതിനുമുമ്പ് ഫോറത്തിൽ റീ ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇത് ഫോറത്തിൽ തന്നെ പായ്ക്ക് ചെയ്യുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ ഇവിടെ പരാമർശിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി അതിനാൽ റീ ഐഡന്റിഫിക്കേഷൻ എന്നാൽ കുറച്ച് വിവരങ്ങൾ എടുക്കുക എന്നാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് PK യെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചു പികെയെ പരാമർശിക്കാത്ത പൊതുവായി ലഭ്യമായ ചില വിവരങ്ങളുണ്ട് ഉദാഹരണത്തിന് വോട്ടർമാരുടെ റെക്കോർഡിനെക്കുറിച്ചും മെഡിക്കൽ റെക്കോർഡിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ച ലതന്യ സ്വീനി സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ മെഡിക്കൽ രേഖകളിൽ അവ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയും വോട്ടർ രേഖകളിലും അവ തിരിച്ചറിയാൻ കഴിയും ഐഡന്റിഫിക്കേഷൻ നമ്മൾ കൂടുതൽ ശക്തമാക്കുകയാണെങ്കിൽ കൂടുതൽ ഡാറ്റ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയും ഉദാഹരണത്തിന് വീണ്ടും ഞാൻ എന്റെ സ്വന്തം ഉദാഹരണത്തിലേക്ക് പോകട്ടെ ചില വെബ്സൈറ്റുകളിൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പൊതുവായി ലഭ്യമായ ചില വിവരങ്ങൾ എടുക്കാം ഐഐഐടിയിലെ ഫാക്കൽറ്റിയാണ് അതുപോലുള്ള മറ്റു കാര്യങ്ങളും കിട്ടും നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് മടങ്ങുകഎന്നിട്ട് എന്നെക്കുറിച്ച് പരസ്യമായി ലഭ്യമായ ഫേസ്ബുക്ക് ചിത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക ആ ചിത്രങ്ങൾ എടുത്ത് ഈ പോസ്റ്റുകളുമായി ബന്ധിപ്പിക്കുക അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പികെ ആണെന്ന് പറയാം ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ NPTEL IIIT ഇൽ ഫാക്കൽറ്റി ആയി ഉള്ളിലുള്ളത് അതിനാൽ ഒരു പ്രത്യേക വ്യക്തിയുടെ ഒരു പ്രത്യേക കാര്യത്തിന്റെ വിവരങ്ങൾ വീണ്ടും തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ആശയമാണ് നമ്മൾ മാക്സ് ഡോട്ട് കോമിനെക്കുറിച്ചും ഡാറ്റാ സെറ്റുകളെക്കുറിച്ചും സംസാരിച്ച ക്ലാസ്സിൽ നിന്നും തിരിച്ചറിയാത്ത ഡാറ്റാസെറ്റുകൾ അത് എവിടെയുണ്ടെന്ന് കണ്ടെത്താനാകുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഏതെന്ന് നിങ്ങൾ വ്യക്തമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ചില തിരിച്ചറിയപ്പെടാത്ത ഡാറ്റ എടുക്കുകയും തിരിച്ചറിഞ്ഞ ചില ഡാറ്റ ഉപയോഗിക്കുകയും അവയെ ഒരുമിച്ച് ചേർക്കുകയും യഥാർത്ഥത്തിൽ ഉപയോക്താക്കളെ തിരിച്ചറിയുകയും ചെയ്യുന്നത് ഒരു റീ ഐഡന്റിഫിക്കേഷൻ ആണ് അതിനാൽ ഓൺലൈൻ ആശയവിനിമയങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന ഇന്ത്യയിലെ പോലീസിനും താമസക്കാർക്കുമായി ഞങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഈ ജോലി ചെയ്തു അതിനാൽ ഇത് ഞാൻ സംസാരിക്കാൻ പോകുന്ന പേപ്പറാണ് പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു ഒരു പേപ്പർ എന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ കുറച്ച കൂടിയ കാര്യമാണ് അതിനാൽ പൊതുവേ കഴിഞ്ഞ രണ്ട് വർഷമായി സോഷ്യൽ മീഡിയ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഉപയോഗിച്ചു ആളുകൾ എന്താണ് പറയുന്നതെന്ന് കണ്ടെത്തുന്നതിന് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാം സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും അല്ലാത്തപക്ഷം എല്ലാ സമയത്തും പോലീസ് സംഘടന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവയെല്ലാം വളരെ ബുദ്ധിമുട്ടിലാവും അതിനാൽ നിങ്ങൾക്ക് സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് ധാരാളം വിവരങ്ങൾ ലഭിക്കും അത് കുറ്റകൃത്യങ്ങൾ തടയാൻ ഉപയോഗിക്കാം അതിനാൽ സോഷ്യൽ മീഡിയ സേവനങ്ങൾ ശരിക്കും വിശകലനം ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായ സൊസൈറ്റികൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും അതിനാൽ യഥാർത്ഥത്തിൽ കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നോക്കിയ തീം തന്നെയാണ് ഡേറ്റ അതിനാൽ രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതുതരം ഡാറ്റയാണ് ശേഖരിച്ചത് അതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന് പഠിക്കുന്നതിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഈ ഡാറ്റ നോക്കാൻ തുടങ്ങി 2014 ൽ ബാംഗ്ലൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഞങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു ചെയ്ത പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കി ഞങ്ങൾ പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഫിൽട്ടർ ചെയ്തു കാരണം അവർ എന്ത് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്ക് പേജിൽ അവർ എന്ത് അഭിപ്രായമാണ് പറയുന്നത് പൊതുജനങ്ങൾ പോലീസിനോട് എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഏകദേശം 1600 അഭിപ്രായങ്ങളും 255 പോസ്റ്റുകളും യഥാർത്ഥത്തിൽ ശേഖരിച്ചു അതിനാൽ രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ഇത്തരം ഡേറ്റ നോക്കുന്നതിന് യഥാർത്ഥത്തിൽ നിരവധി മാർഗങ്ങളുണ്ട് നമ്മൾ പോസ്റ്റ് നോക്കുന്നു അതുപോലെതന്നെ അഭിപ്രായങ്ങൾ നോക്കുന്നു ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതികളിൽ വിശകലനം ചെയ്യാം അതിനാൽ തെറ്റായ വിവരങ്ങൾ അന്വേഷണം ട്രാഫിക് വിശദാംശങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ആളുകൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കണ്ടെത്താൻ നമ്മൾ തിരയുന്ന ഒരു രീതിയുണ്ട് അത് ഉള്ളടക്കത്തെക്കുറിച്ചാണ് പിന്നെ നമ്മൾ ഞാൻ കരുതുന്നതുപോലെ ശൈലി ഔപചാരികമോ അനൌപചാരികമോ ആണോയെന്ന് നോക്കി കൂടാതെ ഇഷ്ടപ്പെടുന്നതോ നന്ദി പറയുന്നതോ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കാണിക്കുന്നു അല്ലെങ്കിൽ മറുപടി തരത്തിലുള്ള രീതിയിലോ ഒരു പരിഹാരം നിർദ്ദേശിക്കുക എന്ന രീതിയിലോ അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് തുടർനടപടികൾ സ്വീകരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നോ റിപ്ലൈ എന്ന രീതിയിൽ അവഗണിക്കുന്ന രീതിയിലുമാകാം കാരണം ഇവയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അതിനാൽ പൌരന്മാർ പോസ്റ്റ് ചെയ്യുന്നു പോലീസ് അതിനെക്കുറിച്ച് എന്തുചെയ്യും അതിനാൽ നിങ്ങൾ വലതുവശത്ത് നോക്കുകയാണെങ്കിൽ പൊതു പോസ്റ്റിനായി ഇരുപത്തിനാല് വിഭാഗങ്ങളും ശൈലിക്ക് രണ്ട് വിഭാഗങ്ങളും പോലീസ് പ്രതികരണങ്ങളുടെ നാല് വിഭാഗങ്ങളും ഉണ്ടെന്ന് പറയുന്നു വീണ്ടും ഞങ്ങൾ ഉള്ളടക്കത്തെക്കുറിച്ച് സംസാരിക്കുകയും ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില വിശകലനങ്ങൾ ഇൻജെക്ട് ചെയ്യുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ലെക്സിക്കൽ വിശകലനത്തിന്റെ കാര്യത്തിലും റഫർ സമയം 0627 പോസ്റ്റിലെ ഉള്ളടക്കം തന്നെയാണ് അതിനാൽ നിങ്ങൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പേജിൽ പൌരന്മാർ ഏത് തരത്തിലുള്ള പോസ്റ്റാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ചില ഫലങ്ങൾ വളരെ രസകരമാണ് മിക്ക കാര്യങ്ങളും യഥാർത്ഥത്തിൽ അയൽപക്കത്തെ ആശങ്കകളിൽ നിന്നായിരുന്നു അപ്പോൾ പോലീസിനോട് നന്ദി പറയുകയും പോലീസ് ചെയ്യുന്ന കാര്യങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതാണ് അപ്പ്രീസിയേഷൻ അത് താഴോട്ടു വന്നു നിർദ്ദേശങ്ങൾ ആകുകയും ഓട്ടോ ഡ്രൈവറുമായി ബന്ധപ്പെട്ട വഞ്ചന മുതൽ ട്രാഫിക് പ്രശ്നങ്ങൾ വരെ പോകുന്നു കൂടാതെ നിങ്ങൾ കമെന്റുകളും ലൈക്കുകളും നോക്കുകയാണെങ്കിൽ അഭിനന്ദനം പോലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള കമെന്റുകൾ യഥാർത്ഥത്തിൽ സംതൃപ്തിക്കുള്ള കമെന്റുകളെക്കാൾ ഉയർന്നതാണ് അതേസമയം നിങ്ങൾ ലൈക്കുകൾ നോക്കിയാൽ സംതൃപ്തി അഭിനന്ദനം വിജയകഥകൾ എന്നിവയ്ക്കുള്ള ലൈക്കുകൾ യഥാർത്ഥത്തിൽ വളരെ ഉയർന്നതാണ് പോലീസ് പോസ്റ്റിന് റഫർ സമയം 0720 സമൂഹത്തിൽ നിന്ന് എങ്ങനെ പ്രതികരണങ്ങൾ ലഭിക്കുന്നു എന്നത് വളരെ അവബോധജന്യമാണ് മറ്റുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലൈക്കുകൾ യഥാർത്ഥത്തിൽ സംതൃപ്തിക്കും അഭിനന്ദന പോസ്റ്റിനും വിജയ കഥകൾക്കും വളരെ ഉയർന്നതാണ് അതിനാൽ നിങ്ങൾ ശേഖരിക്കുന്ന ഏത് തരത്തിലുള്ള ഡാറ്റയും ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ കഴിയുമെന്ന ഒരു ബോധം ഇത് നൽകുന്നു വിശ്വാസ്യതയുടെയും വിശ്വാസത്തിന്റെയും പശ്ചാത്തലത്തിൽ ബോസ്റ്റൺ സ്ഫോടനങ്ങളെക്കുറിച്ചും സാൻഡി ചുഴലിക്കാറ്റിനെക്കുറിച്ചും റഫർ സമയം 0744 അതുപോലെയുള്ള മറ്റു സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചതായി നിങ്ങൾ ഓർക്കുന്നോ നമ്മൾ സമാനമായ വിശകലനം നടത്തുകയാണ് അതുപോലെ തന്നെ സമാനമായ ചോദ്യങ്ങൾ ചോദിക്കുകയുമാണ് എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ വ്യത്യസ്ത സെറ്റ് ഡാറ്റയും നമ്മൾ നിർമ്മിക്കുന്ന വ്യത്യസ്ത തരം ഗ്രാഫുകളും ഉപയോഗിക്കുന്നു അതിനാൽ ഈ പേജുകളിൽ ഏത് തരത്തിലുള്ള പോസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നതെന്നും ഓരോ പോസ്റ്റുകളിലും എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കാണുന്നതെന്നും മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ബോസ്റ്റണിലും സാൻഡി ചുഴലിക്കാറ്റിലും നമ്മൾ നടത്തിയ വിശകലനത്തിന് സമാനമായി ഇവിടെ ഈ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ജിയോസ്പേഷ്യൽ വിശകലനവും നടത്താം റഫർ സമയം 0822 മുകളിലുള്ളത് ബാംഗ്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പോസ്റ്റുകൾ കാണിക്കുന്നു തീർച്ചയായും ഒരാൾക്ക് ഹീറ്റ് മാപ്പ് ചെയ്യാൻ കഴിയും ഭൂരിഭാഗം പോസ്റ്റുകളും വരുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഒരാൾക്ക് കണ്ടെത്താനാകും ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അതിനാൽ പ്രവർത്തനക്ഷമമായ വിവരമാണ് ലക്ഷ്യം എന്നതുകൊണ്ട് ഉള്ളടക്കത്തിൽ നിന്ന് ഏതുതരം വിവരങ്ങൾ വരയ്ക്കാനാകുമെന്ന് കണ്ടെത്തുന്നതിൽ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനാൽ താൽക്കാലിക ഡാറ്റയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പോസ്റ്റ് ഇവിടെയുണ്ട് അത് കുറഞ്ഞത് 5 30 നും 6 pm നും ഇടയിൽ ഉള്ളതാണ് ഞാൻ ഒരു സ്ഥലത്ത് ഓട്ടോയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ഒരു പോലീസ് പോലും ഇവിടെ ലൊക്കേഷൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അതിനാൽ ഇത് ഏത് സമയമാണ് ഏത് സ്ഥലമാണ് എന്തുചെയ്യണം എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ച് പോലീസ് സംഘടനകൾക്ക് നല്ല ബോധം നൽകുന്നു യഥാർത്ഥത്തിൽ ഇത് ഈ വിവരങ്ങൾ ശേഖരിക്കാൻ എളുപ്പമാണ് ഇത് ഈ ഫോമിൽ നൽകിയിരുന്നില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഏത് സ്ഥലമാണെന്നും ഏത് സമയമാണെന്നും അതുപോലുള്ള കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതായി വരും അതിനാൽ നിങ്ങൾ ആശയവിനിമയ ശൈലി നോക്കുകയാണെങ്കിൽ ശൈലിയും രസകരമാണ് റഫർ സമയം 0937 പോലീസ് ഭാഗത്ത് നിന്ന് നടക്കുന്ന ധാരാളം ചർച്ചകൾ യഥാർത്ഥത്തിൽ വളരെ ഔപചാരികമാണ് ഔപചാരികവും അനൌപചാരികവും പ്രിയപ്പെട്ട സർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് കരാറുകാർ പാർക്കിംഗ് സ്ലിപ്പുകൾ ശരിയായി നൽകുന്നില്ല ഇതിൽ നടപടിയെടുക്കാൻ അഭ്യർത്ഥിക്കുന്നത് പൌരന്മാരിൽ നിന്നാണ് ബനസവാടി ട്രാഫിക് പോലീസ് ടീമിന് അഭിനന്ദനങ്ങൾ എന്റെ സല്യൂട്ടും ഇത് അഭിനന്ദനത്തിനുള്ള ഒരു പോസ്റ്റാണ് അതിനാൽ പോലീസിൽ നിന്ന് വന്നാൽ അത് എല്ലായ്പ്പോഴും ഔപചാരികമായിരിക്കും ഇതാണ് ഞാൻ നേരത്തേ പറഞ്ഞ കാര്യം അതായത് ഫേസ്ബുക്ക് അതുപോലുള്ള ഏതൊരു സോഷ്യൽ നെറ്റ്വർക്കും പോലീസിന് യഥാർത്ഥത്തിൽ സമൂഹവുമായി ഏറ്റവും ശക്തമായി ബന്ധപ്പെടാനുള്ള വഴിയാകാം നിങ്ങൾ കോഴ്സിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തുനിന്നും ഒരു പ്രാദേശിക നഗരത്തിന്റെ പോലീസ് പേജുകൾ നോക്കാൻ തുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർ ഏതുതരം പോസ്റ്റ് ചെയ്യുന്നു അവർ തിരയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും അതിനാൽ മുഴുവൻ അറിവും ഗവേഷണവും പ്രവർത്തനവും മുഴുവൻ കമ്മ്യൂണിറ്റി പോലീസിംഗിനെ വർദ്ധിപ്പിക്കുന്നതാണ് അതിനാൽ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് സമൂഹവുമായുള്ള ഇടപെടലുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും ഇവ ചില വിശദാംശങ്ങളാണ് ഞാൻ അവയിലേക്ക് ലളിതമായും വേഗത്തിലും കടക്കാം ശരാശരി പ്രതികരണ സമയം 30 മണിക്കൂർ പരമാവധി സമയം 211 മണിക്കൂർ കുറഞ്ഞ സമയം ഏകദേശം 4 മിനിറ്റ് യഥാർത്ഥത്തിൽ പ്രതികരണങ്ങളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് അവർക്കു 4 മിനിറ്റ് മുതൽ 211 മണിക്കൂർ വരെ പ്രതികരണങ്ങൾ ലഭിക്കുന്നു അതിനാൽ അവർക്ക് ലഭിക്കുന്ന പ്രതികരണ സമയത്തിൽ ഇത് വലിയൊരു വ്യത്യാസമാണ് കാണിക്കുന്നത് അതിനാൽ പോലീസിൽ നിന്ന് വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള പോസ്റ്റുകളും അവർക്ക് ഉള്ള ഇടപെടലുകളും ഇവിടെയുണ്ട് 21 ശതമാനം പോലീസ് പോസ്റ്റും അക്നോളഡ്ജ് ചെയ്തിട്ടുണ്ട് അതിനുള്ള മറുപടി "പ്രിയ XXX ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും"എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് 22 ശതമാനത്തിനു മറുപടിയായി നൽകിയിരിക്കുന്നത് "പ്രിയ XXX ഒരു പരാതി നൽകുക"എന്ന രീതിയിലാണ് "പ്രിയ XXX ഈ പോസ്റ്റ് ഉചിതമായ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി" എന്നത് 44 ശതമാനം ഉണ്ട് ഫോളോ അപ്പ്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ "പ്രിയ XXX ദയവായി പോലീസ് സ്റ്റേഷൻ വിശദാംശങ്ങൾ നൽകുക " എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് അതിനാൽ പോലീസ് സംഘടനകളുടെ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് ഇത് നിങ്ങളോട് പറയുന്നു കൂടാതെ പോസ്റ്റുചെയ്ത എന്തിനും പ്രതികരണം ലഭിക്കണമെന്നുമില്ല അതിനാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന രസകരമായ ഒരു ചോദ്യം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റിനു പോലീസിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെ ഉണ്ടായിരിക്കും എന്നത് രസകരമായ ഒരു കാര്യമാണ് അതിനാൽ പൌരന്മാർ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത് പൌരന്മാർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിനായി നമ്മൾ നോക്കുകയാണെങ്കിൽ പൌരന്മാർ എന്ത് പോസ്റ്റുകൾ ചെയ്യുന്നുവെന്നും നമുക്ക് എങ്ങനെ അതിൽ നിന്നും ഉപയോഗപ്രദമായ ചില വിവരങ്ങൾ പുറത്തെടുക്കാമെന്നും അറിയുവാനായി ഞാൻ ചില ട്വീറ്റുകളിലൂടെ പോകും അതിനാൽ ഈ സാഹചര്യത്തിൽനമ്മൾ വറീഡ് എന്നത് നോക്കുകയാണെങ്കിൽ എൻറെ വാഹനത്തിൻറെ നമ്പർ മാറ്റി എൻറെ ബൈക്ക് ദുരുപയോഗം ചെയ്യുമെന്നുമൊക്കെ പോലെയുള്ള പരാതികൾ കാണുവാൻ ആയിട്ട് സാധിക്കും ഉദാഹരണത്തിന് വാചക ഉള്ളടക്കം തിരിച്ചറിയുന്നതിനും പൌരന്മാർ ചെയ്യുന്ന പോസ്റ്റുകൾ ഏതു തരത്തിലുള്ളതാണെന്നും കാണുന്നതിനും വളരെ ഉപയോഗപ്രദമായ കാര്യമാണിത് തത്സമയം ഒരാൾക്ക് ഈ ട്രീസ് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോലീസിന് വളരെ ഉപകാരപ്രദമാകും നിലവിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട് അതിൽ സമയം വിശദാംശങ്ങൾ ഈ പൌരന്റെ പോസ്റ്റ് തുടങ്ങിയ കാര്യക്ഷമമായ വിവരങ്ങൾ ഉണ്ട് ഇതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അവർ ആശങ്കാകുലരാണ് എന്ന് മനസിലാകും അതുകൊണ്ടുതന്നെ ഇത് വളരെ ഉപയോഗപ്രദമാകും തീർച്ചയായും ഈ പോസ്റ്റിൽ നിന്നുള്ള നേരിട്ടുള്ളതും പരോക്ഷവുമായ വിവരങ്ങൾ കാണിക്കുന്നു നേരിട്ടുള്ള വിവരങ്ങൾ എന്നതിനർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലൂടെ കടന്നുപോകുകയോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സാഹചര്യത്തിന്റെ ഭാഗമായാതോ എന്നാണ് ചിലപ്പോൾ അത് പരോക്ഷമായിരിക്കാം പ്രിയ ബിസിപി ഞാൻ ജെപി നഗറിൽ താമസിക്കുന്നുണ്ടെങ്കിലും കെഎസ്എഫ്സിയുടെ ഭാഗമായതിനാൽ ഞാൻ അവിടെ ഒരു പ്രശ്നം കാണുന്നു അതിനാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്റെ സുഹൃത്ത് ഇത് പറയുന്നു എന്നതാകാം എന്നെക്കുറിച്ച് അല്ലാതെ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റുചെയ്തതാണ് എന്ന രീതിയിലുമാവാം അതിനാൽ എന്നെക്കുറിച്ച് നേരിട്ടും മറ്റൊരാളെ കുറിച്ച് പരോക്ഷമായും പറയുന്ന ചില പോസ്റ്റുകൾ അടുത്തകാലത്തായി ഉണ്ടായിരുന്നു ഒരുപക്ഷേ ഇത് വളരെ അവബോധജന്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ഉള്ളടക്കം എടുക്കാൻ സാധിക്കും ഇവിടെ പൌരന്മാരുടെ ഉത്തരവാദിത്വവും പോലീസിൻറെ ഉത്തരവാദിത്വവും പരിശോധിക്കുന്നു നമുക്ക് എങ്ങനെയാണ് പോസ്റ്റ് നോക്കാനാവുക അവർ എത്ര വേഗത്തിൽ പ്രതികരിക്കുന്നു ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവർ വരുന്നത് പോലീസ് നടത്തുന്ന ഈ ചോദ്യങ്ങളോട് പൌരന്മാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതെല്ലാം നമുക്കീ പോസ്റ്റിൽ നിന്ന് കാണാനാവും അതിനാൽ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്ന് ശേഖരിച്ച പോസ്റ്റിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു നല്ല ചോദ്യമായിരിക്കും പ്രതിബദ്ധത എന്നത് തീർച്ചയായും നമ്മൾ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ അവിടെ പോലീസ് ചെയ്യേണ്ടതാണ് എന്ന് പൌരന്മാർ കരുതുന്നു അതുപോലെതന്നെ പൌരന്മാർ ചെയ്യണമെന്ന് പോലീസ് കരുതുന്ന ഉത്തരവാദിത്വങ്ങളുമുണ്ട് ഈ പ്ലാറ്റ്ഫോമുകൾ പൊതുവായി ലഭ്യമായതിനാൽ എല്ലാവര്ക്കും അവരവരുടേതായ ഒരു ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായും പോലീസ് ഓർഗനൈസേഷനുകൾ ഈ പോസ്റ്റിനോട് പ്രതികരിക്കുന്നു കൂടാതെ വിവരങ്ങൾക്കായി അഭ്യർത്ഥിക്കുകയും കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് സ്വയം ഉത്തരവാദിത്തമെടുക്കുകയും ചെയ്യുന്നു നഗരം സുരക്ഷിതമാക്കാൻ തങ്ങളും ഉത്തരവാദികളാണെന്ന് ഒരു പൌരൻ അംഗീകരിക്കുന്നു പോസ്റ്റിംഗ് പോലീസുമായി ഇടപഴകൽ വിവരങ്ങൾ നൽകൽ എന്നീ പ്രവർത്തനങ്ങൾ വഴി നഗരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്നും പൌരന്മാർ വിശ്വസിക്കുന്നു അതിനാൽ നിങ്ങൾ വീണ്ടും ട്രീയിലേക്ക് നോക്കുകയാണെങ്കിൽ വറീഡ് എന്ന ഉദാഹരണം നമ്മൾ നോക്കി ഇപ്പോൾ നിങ്ങൾ എന്തിന് എന്ന ആശയം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പുകയില നിർത്താത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് എന്ന രീതിയിൽ കാണാനാകും അതിനാൽ ഈ പോസ്റ്റുകളിൽ നിന്നുള്ള ഉള്ളടക്കങ്ങൾ കാണാനും പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ കാണാനും ഇത് ഒരു നല്ല മാർഗമാണ് പൌരന്മാർ എന്താണ് സംസാരിക്കുന്നത് പോലീസ് ഓർഗനൈസേഷനുകൾ യഥാർത്ഥത്തിൽ എന്താണ് പോസ്റ്റുചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വിശകലന രീതികളാണിത് തീർച്ചയായും പോലീസിന് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാൻ കഴിയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പോലുള്ള താമസക്കാരുടെ പ്രതീക്ഷകൾ അറിയാമെങ്കിൽ പോലീസിന് ഭയവും ഉത്കണ്ഠയും നേരിടാൻ കഴിയും എനിക്ക് ഈ സ്ഥലത്ത് താമസിക്കാൻ എന്തെങ്കിലും വേണം എനിക്ക് ചില പ്രത്യേക സുരക്ഷ വേണം ഇത് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പരാതിപ്പെടുന്നു ദയവായി ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇങ്ങനെയുള്ള ഉള്ളടക്കം ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വളരെ സഹായകരമാകും തീർച്ചയായും ഈ വിധികൾക്കെല്ലാം ഒരേയൊരു ഉറവിടം ഇത് മാത്രമല്ല എന്നും മനസ്സിലാക്കണം ശിക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെകുറിച്ചുള്ള ഉദാഹരണങ്ങൾ കൂടി നോക്കുമ്പോൾ ഈ വ്യക്തിയെ തൂക്കിക്കൊല്ലണം എന്നതും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തണം എന്നതുമാണ് ഇത് ചെയ്യുന്നതിന് അത്തരം വിവരങ്ങൾ ആവശ്യമാണ് ഈ രീതിയിലുള്ള ട്രീ വിവരങ്ങൾ യഥാർത്ഥത്തിൽ വളരെ സഹായകരമാണ് ഈ ട്രീയെക്കുറിച്ച് ഞാൻ വേണ്ടത്ര ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ പൌരന്മാർ പ്രതീക്ഷിക്കുന്ന ആവശ്യകതകൾ ഇതാണ് നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് കൂടുതൽ കേൾക്കണമെങ്കിൽ ചില ഉദാഹരണങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നു xyz ന്റെ ശിക്ഷ കാണണം ബാക്കിയുള്ളവ BCC SIR ന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള വിശകലനം നമ്മൾ സംസാരിച്ച പ്രവർത്തനപരമായ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ ശേഖരിച്ച ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക ഇത് നമ്മൾ നോക്കിയതിന്റെ ഒരു സംഗ്രഹം മാത്രമാണ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കാനും പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ മനസ്സിലാക്കാനും കഴിയും പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ ഒരു ട്രീ മാത്രമാണ് എന്നാൽ നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ എടുക്കുന്നു പോലീസ് സംഘടനകൾക്ക് ഇത് നൽകുന്നു എന്നതിലാണ് കാര്യം ഒരേ ട്രീ തന്നെ വീണ്ടും കാണിച്ചേക്കാം പക്ഷേ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നോക്കേണ്ട പോസ്റ്റ് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു കൂടാതെ ഏത് തരത്തിലുള്ള പോസ്റ്റിനാണ് മറുപടി നൽകേണ്ടതെന്നും അതിനായുള്ള ഒരു ടെംപ്ലേറ്റും ഇതിൽ ഉണ്ടാകും ഈ പോസ്റ്റ് നോക്കുന്ന പോലീസ് സംഘടനകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഇത് വളരെ ഉപയോഗപ്രദമാകും പൌരന്മാർക്കും പോലീസിനും ഉത്തരവാദിത്തമുണ്ടെന്ന് നമ്മൾ കണ്ടു കാരണം അവർ ഈ പൊതുവേദിയിൽ യഥാർത്ഥത്തിൽ ഇടപെടുന്നവരാണ് തീർച്ചയായും ഇത് പൊലീസിന് പൌരന്മാരുടെ ഭയം ആഗ്രഹങ്ങൾ മനസ്സിലാക്കൽ ആവശ്യങ്ങൾ മനസ്സിലാക്കൽ എന്നിവയാണ് നമ്മൾ സ്വകാര്യതയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് ആരംഭിച്ചു സ്വകാര്യതയെക്കുറിച്ചുള്ള ഒരു വിഷയം വെച്ചുതന്നെ നമ്മൾ അവസാനിപ്പിച്ചു എന്നിട്ട് നമ്മൾ ഫേസ്ബുക് കൈകാര്യം ചെയ്യുന്ന വിവിധ പോലീസ് സംഘടനകളെ നോക്കി ഫെയ്സ്ബുക്ക് പേജുകളിലും ട്വിറ്റർ ഹാൻഡിലുകളിലും ഏതുതരം പോസ്റ്റുകൾ കാണിക്കുന്നു എന്ന് നോക്കി തുടർന്ന് പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ തിരിച്ചറിയുന്നതിനായി പോസ്റ്റ് പ്രത്യേകമായി വിശകലനം ചെയ്യാൻ നമ്മൾ പഠിച്ചു ഇതോടെ ഞാൻ ഈ പ്രഭാഷണം നിര്ത്തുന്നു